ഹലോ സെക്യുർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിൻറെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ confinement എന്ന പ്രശ്നം കണ്ടു ഈ പ്രഭാഷണത്തിലും തുടർന്നുള്ള മറ്റ് പ്രഭാഷണങ്ങളിലും നമ്മൾ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റുകൾ എന്നറിയപ്പെടുന്ന ഒരു പുതിയ വിഷയത്തെ കുറിച്ച് നോക്കാം ഈ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റുകൾ confinement ൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ആദ്യം നോക്കാം confinement ൽ ഇതുപോലെ ഒരു സാഹചര്യം പരിഗണിക്കുക നമ്മൾക്കു ഒരു സിസ്റ്റം ഉണ്ട് ഈ പ്രത്യേക സിസ്റ്റത്തിനുള്ളിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം ഈ പ്രോഗ്രാം ഒരുപക്ഷെ malicious ആയിരിക്കാം അതിനാൽനമ്മൾ ഉറപ്പാക്കേണ്ടത് ഈ പ്രത്യേക പ്രോഗ്രാം ഒരു നിർദ്ദിഷ്ട പ്രദേശത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് അതിനാൽ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റുകൾ confinement ൽ നിന്ന് അല്ലെങ്കിൽ മുമ്പത്തെ ക്ലാസിൽ നമ്മൾ പഠിച്ചതിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കികൊണ്ട് ആരംഭിക്കാം Confinement ൽ ഇതുപോലുള്ള ഒരു സംവിധാനത്തെ പരിഗണിച്ചിരുന്നു നമ്മൾക്കു ഒരു സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റത്തിൽ മലീഷ്യസ് ആയേക്കാവുന്ന ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം ലീസ്റ് പ്രിവിലേജസ് ഓകെഡബ്ല്യുഎസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫോൾട് ഐസൊലേഷൻ പോലുള്ള ഒന്നിലധികം സാങ്കേതിക വിദ്യകളിലൂടെ നമ്മൾ ചെയ്തത് മലീഷ്യസ് പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ സാധിക്കുന്ന കൺഫൈൻഡ് ഏരിയ സൃഷ്ടിച്ചു എന്നതാണ് അതിനാൽ പ്രോഗ്രാമിൻറെ തെറ്റായ പ്രവർത്തനം എല്ലായ്പ്പോഴും ഈ ഏരിയയിൽ തന്നെ പരിമിതപെടുത്താൻ സാധിക്കുന്നു ഇവിടെ നമ്മൾ അതിന്റെ വിപരീതം ആയ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റിനെ കുറിച്ച് നോക്കുന്നു വിശ്വസനീയമായ പരിതസ്ഥിതിയിൽ പ്രവർത്തിപ്പിക്കാൻ വളരെ സെൻസിറ്റീവ് പ്രോഗ്രാം റൺ ചെയ്യണം അതായത് ഇത് പ്രവർത്തിക്കുന്ന സിസ്റ്റത്തെ പോലും വിശ്വസിക്കാൻ ആവാത്ത വിധം സെൻസിറ്റീവ് ആണ് ഈ പ്രഭാഷണങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് വളരെ സെൻസിറ്റീവ് പ്രോഗ്രാം ഉണ്ട് ഉദാഹരണത്തിന് ഒരു ബാങ്കിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വളരെ നിർണായകമായ ഡാറ്റയുടെ എൻക്രിപ്ഷൻ ചെയ്യുന്ന പ്രോഗ്രാം എന്നിവ കൂടാതെ ഈ പ്രത്യേക പ്രോഗ്രാം യഥാർത്ഥത്തിൽ വിശ്വസനീയമല്ലാത്ത പരിസ്ഥിതിയിൽ പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് മുഴുവൻ സിസ്റ്റത്തെയും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിവുള്ള malware അല്ലെങ്കിൽ malicious applications നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കാം ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഈ malicious പ്രോഗ്രാമുകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു വിവരവും നഷ്ടപ്പെടാതെ സെൻസിറ്റീവ് പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വിശ്വസനീയമല്ലാത്ത സിസ്റ്റം ഉണ്ടായിരുന്നിട്ടും നമ്മളുടെ സെൻസിറ്റീവ് പ്രോഗ്രാം സുരക്ഷിതവുമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലാ പ്രോസസ്സറുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും സ്വീകരിക്കുന്ന റിംഗ് ആർക്കിടെക്ചറാണ് പ്രശ്നത്തിന്റെ പ്രധാന ഭാഗം റിംഗ് ആർക്കിടെക്ചറിൽ ഉദാഹരണത്തിന് എക്സ് 86 റിംഗ് ആർക്കിടെക്ചറിൽ ഒന്നിലധികം റിംഗുകൾ ഉണ്ട് റിംഗ് 0 മുതൽ റിംഗ് 3 വരെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിംഗ് 0 ൽ പ്രവർത്തിക്കുന്നു ഇത് പ്രത്യേക കോഡ് ആണ് ഇത് വിവിധ ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അതിനാൽ എല്ലാ ആപ്ലിക്കേഷനുകളും റിംഗ് 3 ൽ പ്രവർത്തിക്കുന്നു അതിനാൽ പ്രിവിലേജ്ഡ് കോഡിനോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോ എല്ലാ ആപ്ലിക്കേഷനുകളുടെയും മെമ്മറിയും ഡാറ്റയും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആണ് മുഴുവൻ സിസ്റ്റവും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും ഒരു അപ്ലിക്കേഷൻ മറ്റൊരു അപ്ലിക്കേഷനിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു അതായത് ഒരു അപ്ലിക്കേഷന് മറ്റൊരു അപ്ലിക്കേഷനുകളുടെ ഡാറ്റ അഭ്യർത്ഥിക്കാനോ ആക്സസ് ചെയ്യാനോ കഴിയില്ല ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ വിർച്വൽ മെമ്മറി പേജ് ടേബിൾ ക്രമീകരണം എന്നിവ ഉപയോഗിക്കുമ്പോൾ ആപ്ലിക്കേഷനുകളും പ്രിവിലേജ്ഡ് കോഡുകളും തമ്മിലുള്ള പാർട്ടീഷനുകൾ റിംഗ് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നു ഈ ആപ്ലിക്കേഷനുകളിലൊന്ന് മലീഷ്യസ് ആവുകയും ഓപ്പറേഷൻ സിസ്റ്റത്തിലോ പ്രിവിലേജ്ഡ് കോഡിലോ ഒരു ബഗ് കണ്ടെത്തുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നു അതിനാൽ ഇത് പലപ്പോഴും സംഭവിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഈ പ്രോഗ്രാം മലീഷ്യസ് ആണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ബഗ് കണ്ടെത്തി അത് സൃഷ്ടിക്കുകയും ചൂഷണം ചെയ്യുകയും മുഴുവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യും ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുഴുവൻ സിസ്റ്റത്തെയും നിയന്ത്രിക്കുന്നതിനാൽ ആ സിസ്റ്റത്തിൽ നിലവിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നിരീക്ഷിക്കാനോ പരിഷ്ക്കരിക്കാനോ കഴിയും എന്നതാണ് ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ഒഎസിന്റെ അല്ലെങ്കിൽ പ്രത്യേക കോഡ് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി ആ സിസ്റ്റത്തിൽ നിലവിലുള്ള മറ്റെല്ലാ ആപ്ലിക്കേഷനുകളും വിട്ടുവീഴ്ച ചെയ്യപ്പെടും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുഴുവൻ സിസ്റ്റവും വിട്ടുവീഴ്ച ചെയ്യപ്പെടും അതിനാൽ ഇന്നത്തെ സിസ്റ്റത്തിലെ അടിസ്ഥാന പ്രശ്നമാണിത് വിട്ടുവീഴ്ച ചെയ്യാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നിട്ടും സിസ്റ്റത്തിൽ ഒരു സെൻസിറ്റീവ് ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നത് വളരെ പ്രയാസകരമാണ് Invasive attack ആണ് മറ്റൊരു ആക്രമണ സാഹചര്യം അതിനാൽ ഇവിടെ സംഭവിച്ചത് ആക്രമണകാരികൾക്ക് പ്രോസസർ ഐസി ഡി പാക്കേജ് ചെയ്യാനും ഐസിയ്ക്കുള്ളിലെ ആന്തരിക സിഗ്നലുകൾ നിരീക്ഷിക്കാനും കഴിയും എന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് സിപിയു മെമ്മറി വിവിധ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നിവയുള്ള ഈ പ്രത്യേക സാഹചര്യം നോക്കുകയാണെങ്കിൽ അവയെല്ലാം ഒരേ ഡാറ്റ ബസും അഡ്രസ്സ് ബസും പങ്കിടുന്നു വളരെ സാധാരണമായ invasive ആക്രമണത്തിൽ സംഭവിക്കുന്നത് ആക്രമണകാരിക്ക് അഡ്രസ്സ് ബസും ഡാറ്റാ ബസും നിരീക്ഷിക്കാനും പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന തന്ത്രപ്രധാനമായ വിവരങ്ങളിലേക്ക് പ്രവേശനം നേടാനും കഴിയും എന്നതാണ് കോൾഡ് ബൂട്ട് അറ്റാക്ക് ആണ് സമീപകാലത്തെ മറ്റൊരു ആക്രമണം ഈ പ്രത്യേക ആക്രമണം മെമ്മറി ഡി റാം അല്ലെങ്കിൽ ഡൈനാമിക് റാം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന വസ്തുത ഉപയോഗിക്കുന്നു കൂടാതെ ഡി റാമിലെ അടിസ്ഥാന ഘടകം കപ്പാസിറ്ററാണ് കപ്പാസിറ്റർ ചാർജ്ജ് സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക മെമ്മറി ബിറ്റിൽ 1 സംഭരിച്ചിട്ടുണ്ടെന്നാണ് അല്ലെങ്കിൽ ഈ പ്രത്യേക ബിറ്റിൽ 0 ഉള്ളപ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആണ് സൂചിപ്പിക്കുന്നത് പവർ ഓഫ് ചെയ്യുമ്പോൾ പോലും ഈ കപ്പാസിറ്ററുകളുടെ ചാർജ്ജ് പലതും നിശ്ചിത സമയത്തേക്ക് കൂടി തടഞ്ഞുവച്ചിരിക്കുകയായിരിക്കും എന്ന് ആളുകൾ കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡി റാം ചിപ്പ് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പ്ലഗ് ചെയ്ത് പ്രത്യേക ഡി റാം സ്കാൻ ചെയ്ത് ആ ഡി റാമിലെ എല്ലാ ഉള്ളടക്കങ്ങളും വായിക്കുക എന്നതാണ് ഗവേഷകർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഡി റാം ഉള്ളടക്കത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും ലഭ്യമായതിനാൽ ഡി റാമിലുള്ള ധാരാളം വിവരങ്ങൾ ആക്രമണകാരിക്ക് വീണ്ടെടുക്കാൻ കഴിയും തുടർന്നുള്ള ക്ലാസുകളിൽ ഇത്തരം ആക്രമണങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ കാണും ഒരു സാധാരണ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടുവെന്നും അതിനാൽ മുഴുവൻ സിസ്റ്റവും വിട്ടുവീഴ്ച ചെയ്യാമെന്നും ഞങ്ങൾ അനുമാനിക്കുന്നു ഇതൊക്കെയാണെങ്കിലും ഒ എസ് വിട്ടുവീഴ്ചകൾക്കിടയിലും നിങ്ങൾക്ക് തന്ത്രപ്രധാനമായ ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റുകൾ നൽകുന്നത് അതിനാൽ സമീപ വർഷങ്ങളിൽ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റുകൾ വളരെ സാധാരണമായിത്തീർന്നിരിക്കുന്നു ഒപ്പം embedded സിസ്റ്റം മുതൽ high performance computing വരെയുള്ള ഒന്നിലധികം ഡൊമെയ്നുകളിൽ വിവിധ ആപ്ലിക്കേഷനുകൾ കണ്ടെത്തുന്നു പ്രോസസ്സറുകൾക്കായി ഇന്റലും എഎംഡിയും യഥാർത്ഥത്തിൽ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെൻറുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്റലിന്റെ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റായ ഇന്റൽ എസ് ജി എക്സ് നെ കുറിച്ച് വരും ക്ലാസ്സുകളിൽ നമ്മൾ കാണും ഇവടെ മുഴുവൻ സിസ്റ്റവും വിശ്വസനീയമല്ലെങ്കിലും സെൻസിറ്റീവ് കോഡുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി എൻക്ലേവുകൾ ഉപയോഗിക്കുന്നു എംബെഡ്ഡ്ഡ് സിസ്റ്റത്തിൽ ആം എന്ന പേരിൽ ഉള്ള ട്രസ്റ്റ് സോൺ ആർക്കിടെക്ചർ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവയോൺമെന്റിനെ സൂചിപ്പിക്കുന്നു അതിനാൽ തുടർന്നുള്ള ക്ലാസുകളിൽ നമ്മൾ ആദ്യം ARM ട്രസ്റ്റ്സോണിനെക്കുറിച്ചും തുടർന്ന് ഇന്റൽ എസ് ജി എക്സ് നെക്കുറിച്ചും കാണും നന്ദി